നമസ്കാരം ഇന്നത്തെ സെഷനിൽ നമ്മൾ കാന്തിക കപ്പിൾഡ് സർക്യൂട്ടിനെക്കുറിച്ച് ചർച്ച ചെയ്യും വിഷയത്തെക്കുറിച്ചുള്ള ചർച്ച ആരംഭിക്കാം അടിസ്ഥാനപരമായി നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത സർക്യൂട്ടുകൾ കണ്ടക്ടക്റ്റിവ്ലി കപ്പിൾഡ് ആയി കറണ്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു അതിനർത്ഥം ഒരു ലൂപ്പ് കാരണം അയൽപക്കത്തെ ലൂപ്പിൽ കറണ്ട് കണ്ടക്ഷനിലൂടെ ബാധിക്കപ്പെടുന്നു എന്നാണ് രണ്ട് ലൂപ്പുകളും ഒന്നിച്ച് കൂടുകയും കറന്റ് ഒരു ലൂപ്പിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഒഴുകുകയും ചെയ്യുന്നു എന്നാണ് ഇപ്പോൾ ഈ സാഹചര്യത്തിൽ രണ്ട് ലൂപ്പുകൾ വൈദ്യുതപരമായി ബന്ധിപ്പിക്കപ്പെടാം അല്ലെങ്കിൽ ബന്ധിപ്പിക്കപ്പെടില്ല പക്ഷേ അവയിലൊന്ന് സൃഷ്ടിക്കുന്ന കാന്തികക്ഷേത്രത്തിലൂടെ അവ പരസ്പരം ബന്ധിപ്പിക്കും എന്ന് നമ്മൾ കാണും അത്തരം സന്ദർഭങ്ങളിൽ അത്തരം സർക്യൂട്ട് കോമ്പിനേഷനുകൾ കാണുമ്പോൾ നമ്മൾ അവയെ കാന്തികമായ കപ്പിൾഡ് സർക്യൂട്ട് എന്ന് വിളിക്കുന്നു ഇതിനുള്ള ഏറ്റവും സാധാരണ ഉദാഹരണം ട്രാൻസ്ഫോർമർ ആണ് അവിടെ കാന്തിക കപ്ലിംഗ് എന്ന ആശയം അടിസ്ഥാനമാക്കി ഇലക്ട്രിക്കൽ ഉപകരണം രൂപകൽപ്പന ചെയ്തിരിക്കുന്നു ഇപ്പോൾ ഇത് ഒരു സർക്യൂട്ടിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഊർജ്ജം കൈമാറാൻ കാന്തികമായി കപ്പിൾഡ് കോയിലുകൾ ഉപയോഗിക്കുന്നു പവർ സിസ്റ്റം നെറ്റ്വർക്കിന്റെ പ്രധാന സർക്യൂട്ട് ഘടകങ്ങളാണ് ട്രാൻസ്ഫോർമറുകൾ കാരണം നമ്മൾ വോൾട്ടേജ് ലെവൽ മാറ്റേണ്ടി വരുമ്പോഴെല്ലാം നിങ്ങൾ പവർ സിസ്റ്റം നെറ്റ്വർക്കിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നുവെന്ന് അർത്ഥമാക്കുന്നു ഇനി നമുക്ക് പരസ്പര ഇൻഡക്റ്റൻസ് എന്താണ് എന്ന് കാണാം രണ്ട് കണ്ടക്ടറുകൾ അല്ലെങ്കിൽ രണ്ട് കോയിലുകൾ പരസ്പരം അടുത്തിരിക്കുമ്പോൾ നിങ്ങൾക്ക് പറയാൻ കഴിയും ഒരു കോയിലിലെ കറന്റ് മൂലമുണ്ടാകുന്ന കാന്തിക പ്ലഗുകൾ മറ്റ് കോയിലുമായി ബന്ധിപ്പിക്കുകയും അതുവഴി ഇത് രണ്ടാമത്തെ കോയിലിലെ വോൾട്ടേജിനെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു ഈ പ്രത്യേക പ്രതിഭാസം അറിയപ്പെടുന്നത് പരസ്പര ഇൻഡക്റ്റൻസ് എന്നാണ് കോയിലിന് N തിരിവുകളുള്ള ഒരു സിംഗിൾ ഇൻഡക്റ്റർ ആദ്യം പരിഗണിക്കാം i എന്ന വൈദ്യുതധാര കോയിലിലൂടെ പ്രവഹിക്കുമ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് ഫൈ ചുറ്റും ഉത്പാദിപ്പിക്കപ്പെടും ഈ ചിത്രത്തിൽ കാണുന്നതുപോലെ കറണ്ട് i ഇൻഡക്ടറിൽ ഒഴുകുന്നു ഫ്ലക്സ് ഫൈ ജനറേറ്റുചെയ്യുന്നു സൃഷ്ടിച്ച ആ ഫ്ലക്സ് കാരണം v എന്ന വോൾട്ടേജ് പ്രേരിപ്പിക്കും വോൾട്ടേജ് എങ്ങനെ പ്രചോദിപ്പിക്കപ്പെടും ഫാരഡെയുടെ നിയമം നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ കോയിലിൽ പ്രേരിപ്പിക്കുന്ന വോൾട്ടേജ് തിരിവുകളുടെ എണ്ണത്തിനും കാന്തിക പ്രവാഹത്തിന്റെ മാറ്റത്തിനും ആനുപാതികമാണെന്ന് പറയുന്നു നമുക്ക് ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് ഇങ്ങനെ എഴുതാം ഇപ്പോൾ ഫ്ലക്സ് വൈദ്യുതധാരയാണ് ഉൽപാദിപ്പിക്കുന്നത് അതിനാൽ വൈദ്യുതധാരയിലെ മാറ്റമാണ് ഏത് മാറ്റത്തിനും കാരണമെന്ന് നമുക്ക് പറയാം അതിനാൽ ഈ പ്രത്യേക സമവാക്യം നമുക്ക് പുന ക്രമീകരിക്കാനും എഴുതാനും കഴിയും

ഈ സമവാക്യം ഇപ്പോൾ കാണിക്കുന്നത് ഇൻഡക്റ്ററുകൾക്കുള്ള വോൾട്ടേജ് കറൻറ് ബന്ധമാണ് ഇപ്പോൾ ഈ ഇൻഡക്റ്റൻസിനെ സാധാരണയായി സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന് വിളിക്കുന്നു കാരണം ഇത് ഒരു കോയിലിൽ ഉൽപാദിപ്പിക്കപ്പെടുന്ന വോൾട്ടേജിനെ ഒരേ കോയിലിലെ സമയവുമായി വ്യത്യാസപ്പെടുന്ന കറന്റ് ആയി ബന്ധപ്പെടുത്തുന്നു ഇപ്പോൾ നമുക്ക് 2 കോയിലുകൾ പരിഗണിക്കാം അവയ്ക്ക് സെൽഫ് ഇൻഡക്റ്റൻസുകളുണ്ടെന്നും രണ്ട് കോയിലുകളും പരസ്പരം സാമീപ്യത്തിലാണെന്നും നമ്മൾ അനുമാനിക്കുന്നു ഈ പ്രത്യേക കേസിൽ കോയിൽ 1 ന് N1 തിരിവുകളും കോയിൽ 2 ന് തിരിവുകളും ഉണ്ടെന്ന് സങ്കൽപ്പിക്കുക ലാളിത്യത്തിനുവേണ്ടി രണ്ടാമത്തെ ഇൻഡക്റ്റർ വൈദ്യുതധാരയൊന്നും വഹിക്കുന്നില്ലെന്ന് കരുതുക കോയിൽ 1 ൽ നിന്ന് വരുന്ന മാഗ്നറ്റിക് ഫ്ലക്സിന് നു 2 ഘടകങ്ങൾ ഉണ്ടായിരിക്കും അത് കോയിൽ 1 നെ മാത്രം ബന്ധിപ്പിക്കുന്ന ഘടകങ്ങളാണ് ഈ കോയിലിൽ സൃഷ്ടിക്കപ്പെട്ട എന്ന കാന്തിക പ്രവാഹം കോയിൽ 1 ലേക്ക് മാത്രം ബന്ധിപ്പിക്കുന്ന മറ്റൊരു ഘടകവും ബന്ധിപ്പിക്കുന്ന മറ്റൊരു ഘടകവും രണ്ടാമത്തെ കോയിലും ഉണ്ടാകും നിങ്ങൾക്ക് മൊത്തം ഫ്ലക്സ് പറയാൻ കഴിയും ഇപ്പോൾ രണ്ട് കോയിലുകളും വേർതിരിക്കപ്പെട്ടുവെന്ന് നമുക്കറിയാം അവ വൈദ്യുതമായി ബന്ധിപ്പിച്ചിട്ടില്ല അവ കേവലം കാന്തികമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് നമുക്ക് പറയാൻ കഴിയും ഇപ്പോൾ ഫ്ലക്സ് കോയിൽ 1 നെ ബന്ധിപ്പിക്കുന്നതിനാൽ ചിത്രത്തിൽ കാണുന്നതുപോലെ ഈ ഫ്ലക്സ് ഈ പ്രത്യേക കോയിലിനെ പൂർണ്ണമായും ബന്ധിപ്പിക്കുന്നു അതിനാൽ കോയിൽ 1 ൽ പ്രേരിപ്പിച്ച വോൾട്ടേജ് നമുക്ക് ഇങ്ങനെ എഴുതാം i1 എന്നത് കോയിൽ 1 ലെ വൈദ്യുതധാരയും കോയിലിന്റെ സെൽഫ് ഇൻഡക്റ്റൻസുമാണ് ഫ്ലക്സ് കോയിൽ 2 ൽ മാത്രം ബന്ധിപ്പിക്കുന്നു അതിനാൽ കോയിൽ 2 ൽ പ്രേരിപ്പിക്കുന്ന വോൾട്ടേജ് കോയിലുമായി ബന്ധപ്പെട്ട് കോയിൽ 2 ന്റെ പരസ്പര ഇൻഡക്റ്റൻസായിരിക്കും ഇപ്പോൾ സബ്സ്ക്രിപ്റ്റ് M21 ൽ എഴുതിയ 21 ഇത് സൂചിപ്പിക്കുന്നത് കോയിൽ 1 ൽ നിലവിലുള്ള പ്രവാഹം കാരണം കോയിൽ 2 ൽ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന വോൾട്ടേജുമായി ഇൻഡക്റ്റൻസ് ബന്ധപ്പെട്ടിരിക്കുന്നു നമുക്ക് കോയിൽ 2 വഴിയുള്ള കറണ്ട് ന്റെ ഒഴുക്ക് പരിഗണിക്കാം സ്ലൈഡിലെ ചിത്രം കണ്ടാൽ രണ്ടാമത്തെ കോയിലുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന കറണ്ട് ഉറവിടമാണ് കറണ്ട് കോയിൽ സൃഷ്ടിക്കുന്ന ഫ്ലക്സ് ന് 2 ഘടകങ്ങൾ ഉണ്ട് രണ്ടാമത്തെ കോയിലിനെ മാത്രം ബന്ധിപ്പിക്കുന്ന ഘടകമാണ് അതേസമയം രണ്ട് കോയിലുകളെയും ബന്ധിപ്പിക്കുന്ന ഘടകമാണ് നിങ്ങൾക്ക് പറയാൻ കഴിയും ഇപ്പോൾ ഈ കേസിൽ കോയിൽ 1 ന്റെ കാര്യത്തിലെന്നപോലെ നമുക്ക് എന്നത് വീണ്ടും രണ്ടാമത്തെ കോയിലുമായി മുഴുവനായി ബന്ധിപ്പിക്കുമെന്ന് നമുക്ക് കാണാം നമുക്ക് എഴുതാം i2 കോയിൽ 2 ലെ വൈദ്യുതധാരയും L2 കോയിൽ 2 ന്റെ സെൽഫ് ഇൻഡക്റ്റൻസും ആണ് ഫ്ലക്സ് മാത്രമാണ് കോയിൽ 1 യി ബന്ധിപ്പിക്കുന്നത് അതിനാൽ കോയിൽ 1 ൽ പ്രേരിപ്പിക്കുന്ന വോൾട്ടേജ് കോയിൽ 2 മായി ബന്ധപ്പെട്ട് കോയിൽ 1 ന്റെ പരസ്പര ഇൻഡക്റ്റൻസാണ് ഇപ്പോൾ ഈ പരസ്പര ഇൻഡക്റ്റൻസാണ് ഒരു അയൽ ഇൻഡക്ടറിലുടനീളം വോൾട്ടേജ് പ്രേരിപ്പിക്കാനുള്ള ഒരു ഇൻഡക്റ്ററിന്റെ കഴിവ് ഇത് പ്രതിനിധീകരിക്കുന്നതും അളക്കുന്നതും ഹെൻറി എന്ന ഘടകമാണ് ചുരുക്കത്തിൽ നിങ്ങൾക്ക് എച്ച് എന്ന് എഴുതാം പരസ്പര ഇൻഡക്റ്റൻസ് M എല്ലായ്പ്പോഴും പോസിറ്റീവ് അളവാണെങ്കിലും പരസ്പര വോൾട്ടേജായ നെഗറ്റീവ് അല്ലെങ്കിൽ പോസിറ്റീവ് ആയിരിക്കാം അതിനാൽ സ്വയം പ്രേരിപ്പിക്കുന്ന നിന്ന് വ്യത്യസ്തമാണ് കാരണം ന്റെ പൊളാരിറ്റി കണ്ടുപിടിക്കുവാൻ സാധിക്കും പൊളാരിറ്റി എങ്ങിനെ കറണ്ട് ൻറെ റഫറൻസ് ദിശ ഉപയോഗിച്ചും വോൾട്ടേജിന്റെ റഫറൻസ് പൊളാരിറ്റി ഉപയോഗിച്ച് കണ്ടെത്താനാകും ആദ്യ ആഴ്ചയിലെ നിഷ്ക്രിയ ചിഹ്ന കൺവെൻഷൻ നമ്മൾ ചർച്ച ചെയ്തതായി ഓർക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് സ്വയം പ്രേരിപ്പിച്ച വോൾട്ടേജ് ഉണ്ടെങ്കിൽ അതിൻറെ പൊളാരിറ്റി കണ്ടെത്താൻ നിങ്ങൾക്ക് ആ ചർച്ച ഉപയോഗിക്കാം ഇപ്പോൾ പരസ്പര വോൾട്ടേജിന്റെ പൊളാരിറ്റി കണ്ടുപിടിക്കുന്നത് അത് അത്ര എളുപ്പമല്ല കാരണം അതിൽ ഇപ്പോൾ നാല് ടെർമിനലുകൾ ഉൾപ്പെടുന്നു കോയിൽ 1 ന്റെ രണ്ട് ടെർമിനലുകളും കോയിൽ 2 ന്റെ രണ്ട് ടെർമിനലുകളും നമുക്ക് നാല് ടെർമിനലുകൾ ഉള്ളതിനാൽ പരസ്പര വോൾട്ടേജിന്റെ ധ്രുവത കണ്ടെത്താൻ പാസിവ് ചിഹ്ന കൺവെൻഷൻ നേരിട്ട് ഉപയോഗിക്കാൻ കഴിയില്ല കോയിലിന്റെ ഓറിയന്റേഷൻ പരിശോധിച്ചുകൊണ്ട് രണ്ട് കോയിലുകളും ബന്ധിപ്പിച്ചിരിക്കുന്ന രീതിയെ പരിശോധിക്കുകയും പരസ്പര വോൾട്ടേജിന് ശരിയായ പൊളാരിറ്റി കണ്ടെത്തുന്നതിന് വലതു കൈ നിയമത്തിനൊപ്പം ലെൻസിന്റെ നിയമവും പ്രയോഗിക്കുകയും ചെയ്തു കൊണ്ടാണ് ഇപ്പോൾ ശരിയായ പൊളാരിറ്റി തിരഞ്ഞെടുക്കുന്നത് ഇപ്പോൾ കോയിലിന്റെ നിർമ്മാണ വിശദാംശങ്ങൾ കാണിക്കുന്നത് എളുപ്പമല്ല രണ്ട് കോയിലുകളും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു നമ്മൾ എന്തു ചെയ്യുന്നു നമ്മൾ സർക്യൂട്ട് വിശകലനത്തിനായി നമ്മൾ സാധാരണയായി ഡോട്ട് കൺവെൻഷൻ ഉപയോഗിക്കുന്നു ഈ കൺവെൻഷനിലൂടെ കോയിലിന്റെ ഡോട്ട് ചെയ്ത ടെർമിനലിൽ കറന്റ് പ്രവേശിച്ചാൽ കാന്തിക പ്രവാഹത്തിന്റെ ദിശ സൂചിപ്പിക്കുന്നതിന് 2 കാന്തികമായി ചേർത്ത കോയിലുകളുടെ ഓരോ അറ്റത്തും ഒരു ഡോട്ട് നമ്മൾ സർക്യൂട്ടിൽ സ്ഥാപിക്കുന്നു അതിനാൽ കോയിലിന്റെ ഡോട്ട്ഡ് ടെർമിനലിൽ കറന്റ് പ്രവേശിക്കുമ്പോൾ മ്യൂച്വൽ വോൾട്ടേജ് എങ്ങനെ ഓറിയന്റ് ചെയ്യുമെന്ന് നമ്മൾ കാണിക്കുന്നു ഈ ചിത്രത്തിന്റെ സഹായത്തോടെ ഈ ആശയം ഇവിടെ മനസിലാക്കാം കറന്റ് ഡോട്ടിലേക്ക് പ്രവേശിക്കുന്നു നിങ്ങൾ കോയിൽ കണ്ടാൽ ഓറിയന്റേഷൻ ഇതുപോലെ ആണ് നിങ്ങൾ ഒരു കൈപ്പത്തി വച്ചാൽ അത് കോയിലിന്റെ വശത്തെ പൂർണ്ണമായും ചുരുട്ടുന്ന തരത്തിൽ ആയിരിക്കും കൈ വയ്ക്കുകയും വിരൽ ചുരുട്ടുകയും ചെയ്താൽ കോയിൽ ബന്ധിച്ചിരിക്കും നിങ്ങൾ ഇതുപോലെ സ്ഥാപിക്കുമ്പോൾ നിങ്ങളുടെ തള്ളവിരൽ ഈ ദിശയിലായിരിക്കും ഏത് ദിശയിലാണ് ഫ്ലക്സ് കറങ്ങുന്നതെന്ന് ഈ തള്ളവിരൽ ദിശ കാണിക്കും അതിനാൽ ഇവിടെ കറന്റ് അകത്തേക്ക് പോകുകയും നിങ്ങൾക്ക് ഫ്ലക്സ് ഘടികാരദിശയിൽ കോയിൽ 2 നെ ലിങ്കുചെയ്യുന്നു അതുപോലെ കോയിൽ 2 ൽ കറന്റ് ഡോട്ടിലേക്ക് പ്രവേശിക്കുകയും ഡോട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നിടത്താണ് വോൾട്ടേജിന്റെ പോസിറ്റീവ് പോളാരിറ്റി ഇവിടെയും ഡോട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നിടത്താണ് പോസിറ്റീവ് പോളാരിറ്റി അതിനാൽ ഈ കേസിൽ നമ്മൾ ചെയ്തതു പോലെ നമ്മളുടെ വലതു കൈ വയ്ക്കുമ്പോൾ നമ്മളുടെ തള്ളവിരൽ താഴേക്കുള്ള ദിശയിലായിരിക്കും ഘടികാരദിശയിൽ ആദ്യത്തെ കോയിലിനെ വീണ്ടും ലിങ്ക് ചെയ്യും ഇപ്പോൾ ഈ പ്രത്യേക സാഹചര്യത്തിൽ ഡോട്ടുകൾ ഇതിനകം സ്ഥാപിച്ചിരിക്കുന്നു അതുകൊണ്ട് ഡോട്ടുകൾ എങ്ങനെ സ്ഥാപിക്കാമെന്ന് നമ്മൾ ആലോചിക്കേണ്ടതില്ല പരസ്പര വോൾട്ടേജിന്റെ പൊളാരിറ്റി നിർണ്ണയിക്കാൻ ഡോട്ട് കൺവെൻഷനോടൊപ്പം ഡോട്ടുകൾ ഉപയോഗിക്കും ഈ അവസ്ഥ എങ്ങനെയാണെങ്കിൽ ഇൻഡ്യൂസ്ഡ് മ്യൂച്വൽ വോൾട്ടേജ് പോളാരിറ്റി എങ്ങനെ നിർണ്ണയിക്കാമെന്ന് നമുക്ക് കാണാം ആദ്യം ഡോട്ട് കൺവെൻഷൻ മനസിലാക്കാം ഒരു കോയിലിന്റെ ഡോട്ട് ചെയ്ത ടെർമിനലിലേക്ക് ഒരു കറന്റ് പ്രവേശിച്ചാൽ രണ്ടാമത്തെ കോയിലിലെ മ്യൂച്വൽ വോൾട്ടേജിന്റെ റഫറൻസ് പോളാരിറ്റി രണ്ടാമത്തെ കോയിലിന്റെ ഡോട്ട്ഡ് ടെർമിനലിൽ പോസിറ്റീവ് ആണ് അതിനാൽ പരസ്പരം ഇൻഡക്റ്റൻസിൽ കറന്റ് പ്രവേശിക്കുകയാണെങ്കിൽ ടെർമിനലിന്റെ ഡോട്ട് ചെയ്ത ഭാഗത്ത് പോസിറ്റീവ് പോളാരിറ്റി ഉണ്ടാകും ഇപ്പോൾ ഒരു കോയിലിന്റെ ഡോട്ട് ചെയ്ത ടെർമിനലിൽ നിന്ന് കറന്റ് പോവുകയാണെങ്കിൽ രണ്ടാമത്തെ കോയിലിലെ മ്യൂച്വൽ വോൾട്ടേജിന്റെ റഫറൻസ് പോളാരിറ്റി കോയിലിന്റെ ഡോട്ട്ഡ് ടെർമിനലിൽ നെഗറ്റീവ് ആയിരിക്കും വൈദ്യുതധാരയുടെ ദിശ വിപരീതമാണെന്നും ഈ വശത്ത് നിന്ന് വൈദ്യുത പ്രവാഹം നടക്കുന്നുണ്ടെന്നും കരുതുക അങ്ങനെയാണെങ്കിൽ പരസ്പര വോൾട്ടേജിനെ പ്രേരിപ്പിക്കുന്ന വോൾട്ടേജിന്റെ പൊളാരിറ്റി ഇങ്ങനെയായിരിക്കും അതിനാൽ രണ്ടാമത്തെ കോയിലിലെ ഡോട്ട് ടെർമിനലിൽ രണ്ടാമത്തെ കോയിലിലെ മ്യൂച്വൽ വോൾട്ടേജ് നെഗറ്റീവ് ആയിരിക്കും എന്നാണ് ഇതിനർത്ഥം അങ്ങനെ പരസ്പര വോൾട്ടേജിന്റെ റഫറൻസ് പോളാരിറ്റി കറന്റ് പ്രേരിപ്പിക്കുന്നതിന്റെ റഫറൻസ് ദിശയെയും കപ്പിൾഡ് കോയിലിലെ ഡോട്ടുകളെയും ആശ്രയിച്ചിരിക്കുന്നു പരസ്പര വോൾട്ടേജിന്റെ റഫറൻസ് പോളാരിറ്റി കണ്ടെത്താൻ ഈ രണ്ട് കാര്യങ്ങളും പ്രധാനമാണ് രണ്ട് ഉദാഹരണങ്ങളുടെ സഹായത്തോടെ ഈ പ്രത്യേക പ്രതിഭാസത്തെ നമുക്ക് മനസ്സിലാക്കാം ഈ ചിത്രത്തിൽ നോക്കിയാൽ എന്ന പരസ്പര വോൾട്ടേജിന്റെ അടയാളം റഫറൻസ് പോളാരിറ്റിയും i1 ന്റെ ദിശയും അനുസരിച്ച് നിർണ്ണയിക്കപ്പെടുന്നതാണ് ഡോട്ട് ൻറെ ഉള്ളിൽ കറന്റ് ഒഴുകുന്നത് നിങ്ങൾ കാണുകയാണെങ്കിൽ ന്റെ റഫറൻസ് പോളാരിറ്റി സെക്കൻഡറി വശത്തെ ടെർമിനലിന്റെ ഡോട്ട് ചെയ്ത ഭാഗത്ത് പോസിറ്റീവ് ആയിരിക്കും പരസ്പര വോൾട്ടേജ് പോസിറ്റീവ് ആയിരിക്കും കാരണം i1 കോയിൽ 1 ന്റെ ഡോട്ട് ചെയ്ത ടെർമിനലിലേക്ക് പ്രവേശിക്കുകയും v2 കോയിൽ 2 ന്റെ ഡോട്ട്ഡ് ടെർമിനലിൽ പോസിറ്റീവ് ആകുകയും ചെയ്യുന്നു ഇപ്പോൾ ഈ സാഹചര്യത്തിൽ കോയിൽ 1 ന്റെ ഡോട്ട് ചെയ്ത ടെർമിനലിലേക്ക് പ്രവേശിക്കുന്നു പക്ഷേ കോയിൽ 2 ന്റെ ഡോട്ട് ചെയ്ത ടെർമിനലിൽ നെഗറ്റീവ് ആണ് കാരണം ന്റെ പൊളാരിറ്റി ഡോട്ട് ചെയ്ത ടെർമിനലിന് വിപരീതമാണ് അതിനാൽ പരസ്പര വോൾട്ടേജ് ആയിരിക്കും ഇപ്പോൾ സമാനമായ അവസ്ഥയിൽ രണ്ടാമത്തെ കോയിലിൽ കറന്റ് ഒഴുകുമ്പോൾ അതിനാൽ കറന്റ് ഒഴുകുന്നു രണ്ടാമത്തെ കോയിലിൽ ഒഴുകുന്നു അതിനർത്ഥം ഡോട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു എന്നാണ് അതിനർത്ഥം അത് ഡോട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുകയാണെങ്കിൽ മ്യൂച്വൽ ഇൻഡ്യൂസ്ഡ് വോൾട്ടേജിന്റെ മൂല്യം താഴേക്കുള്ള ടെർമിനലിൽ നെഗറ്റീവ് ആയിരിക്കും ഡോട്ട്ഡ് ടെർമിനലിൽ പോസിറ്റീവ് ആയിരിക്കും സമാനമായി ഡോട്ടിൽ നിന്ന് പുറത്തുകടക്കുന്നുവെങ്കിലും രണ്ടാമത്തെ വോൾട്ടേജ് പോളാരിറ്റിക്ക് ഡോട്ട്ഡ് ടെർമിനലിൽ മൈനസ് ഉണ്ടാകും അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഇൻഡ്യൂസ്ഡ് മ്യൂച്വൽ വോൾട്ടേജ് ആയിരിക്കും ഇവിടെ നിങ്ങൾ ഡോട്ടിൽ നിന്ന് പുറത്തുകടക്കുന്നതിനാൽ ഡോട്ടിലെ വോൾട്ടേജിന്റെ പൊളാരിറ്റി നെഗറ്റീവ് ആയതിനാൽ നിങ്ങളുടെ പരസ്പര ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് പോസിറ്റീവ് ആയിരിക്കുമെന്നാണ് ഇതിനർത്ഥം ഇപ്പോൾ കോയിലുകൾ വൈദ്യുതമായി ബന്ധിപ്പിച്ചിരിക്കുന്ന സർക്യൂട്ട് പരിഗണിക്കാം അതിനാൽ കോയിൽ കാന്തികമായി ആയി ബന്ധപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ ഈ സാഹചര്യത്തിൽ കറന്റ് ഡോട്ടിനുള്ളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഈ സാഹചര്യത്തിൽ കറന്റ് വീണ്ടും ഡോട്ട് ഉള്ളിലേക്ക് പോകുന്നുവെങ്കിൽ മൊത്തം ഇൻഡക്റ്റൻസ് ആഡിങ് കണക്ഷനായിരിക്കും അതിനർത്ഥം കറന്റ് ഡോട്ടിലേക്ക് പ്രവേശിക്കുകയും രണ്ടാമത്തെ കേസിൽ കറന്റ് വീണ്ടും ഡോട്ടിൽ നിന്ന് പുറത്തു പോകുകയും ചെയ്യുമ്പോൾ പരസ്പര ഇൻഡക്റ്റൻസ് വിപരീത ദിശയിലായിരിക്കുമെന്നും മൊത്തം ഇൻഡക്റ്റൻസ് നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് ഇതിനർത്ഥം ഇതിനെ എതിർ കണക്ഷൻ എന്ന് വിളിക്കുന്നു കാരണം കറന്റ് ഒരു ദിശയിൽ നിന്ന് ഡോട്ടിനുള്ളിലേക്ക് പോകുന്നു എന്നാൽ മറുവശത്ത് നിന്ന് ഡോട്ടിൽ നിന്ന് പുറത്തുകടക്കുന്നു ഇപ്പോൾ നമുക്ക് പരസ്പരം വോൾട്ടേജിന്റെ പൊളാരിറ്റി എങ്ങനെ നിർണയിക്കാൻ അറിയാമെന്ന് പറയാൻ കഴിയും ഇപ്പോൾ കുറച്ച് സർക്യൂട്ടുകൾ പരിഹരിച്ചാൽ അതുവഴി നമ്മളുടെ സർക്യൂട്ട് വിശകലനങ്ങളിൽ പരസ്പര ഇൻഡക്റ്റൻസിനെ എങ്ങനെ ഉൾപ്പെടുത്താമെന്ന് നമുക്ക് മനസിലാക്കാൻ കഴിയും ഈ ചിത്രം നോക്കിയാൽ എന്ന 2 വോൾട്ടേജുകൾ അടുത്തുള്ള 2 കോയിലുകളിലുടനീളം പ്രയോഗിച്ചിരിക്കുന്നു എന്ന് നമുക്ക് കാണാം ഇവ രണ്ടും കാന്തികമായി ബന്ധിപ്പിച്ചിരിക്കുന്നു രണ്ട് അളവുകൾക്കും സമവാക്യങ്ങൾ എഴുതാൻ നമുക്ക് കിർചോഫ്സ് വോൾട്ടേജ് നിയമം ഉപയോഗിക്കാം ഈ പ്രത്യേക പൊരുത്തത്തിലെ കറന്റ് ഈ ദിശയിലാണെന്ന് നമുക്ക് പറയാം കറന്റ് ഈ ദിശയിലാണെന്ന് പറയാം അതിനാൽ കോയിൽ 1 ന് ഇപ്പോൾ ഇവിടെ രണ്ട് സാഹചര്യങ്ങളിലും കറന്റ് ഡോട്ടിനുള്ളിലേക്ക് പോകുന്നു ഡോട്ട് ബന്ധിപ്പിച്ചിരിക്കുന്ന രണ്ട് വശങ്ങളിലും റഫറൻസ് പോളാരിറ്റി പോസിറ്റീവ് ആണ് ഈ രണ്ട് കോയിലുകളുടെയും കാന്തിക കപ്ലിംഗ് കാരണം പരസ്പര ഇൻഡക്റ്റൻസും മ്യൂച്വൽ വോൾട്ടേജും പോസിറ്റീവ് ആയിരിക്കും എന്നാണ് ഇതിനർത്ഥം രണ്ടാമത്തെ കോയിലിനായി നിങ്ങൾക്ക് എഴുതാൻ കഴിയുന്നത് ഇപ്പോൾ നമുക്ക് മറ്റൊരു ഉദാഹരണം നോക്കാം ഇവിടെ ഈ പരിഗണിക്കുന്ന സർക്യൂട്ടിന്റെ ആദ്യ ഭാഗത്ത് ഇവിടെ കാണിച്ചിരിക്കുന്നതുപോലെ നമുക്ക് വോൾട്ടേജ് V ബന്ധിപ്പിച്ചിരിക്കുന്നു രണ്ടാം ഭാഗത്ത് നമ്മൾ ലോഡ് കണക്റ്റുചെയ്തു ഇപ്പോൾ നമുക്ക് കോയിൽ 1 ലേക്ക് കെവിഎൽ പ്രയോഗിക്കാം കോയിൽ 2 ന് കെവിഎൽ പ്രയോഗിച്ചാൽ ലഭിക്കുന്നത് നമുക്ക് ഒരു ഉദാഹരണം നോക്കാം ഈ സാഹചര്യത്തിൽ നമ്മൾ വോൾട്ടേജ് പ്രയോഗിച്ചു രണ്ടാമത്തെ കോയിലിൽ നമ്മൾ 12 ഓം റെസിസ്റ്റൻസ് പ്രയോഗിച്ചു കെവിഎൽ വീണ്ടും ഉപയോഗിക്കുമ്പോൾ മെഷ് 2 ൽ മെഷ് 2 മെഷ് സമവാക്യം ഉപയോഗിച്ച് അതിനാൽ കറണ്ട് എന്നത് കെവിഎൽ ഉപയോഗിച്ച് നിങ്ങൾക്ക് വീണ്ടും ഇത്തരത്തിലുള്ള കാന്തിക കപ്പിൾഡ് കോയിലുകൾ കാണുന്ന സർക്യൂട്ടുകൾ പരിഹരിക്കാൻ കഴിയും നിങ്ങൾ ഓർമ്മിക്കേണ്ട പ്രധാന കാര്യം പരസ്പര വോൾട്ടേജിന്റെ പൊളാരിറ്റി നിങ്ങൾ എങ്ങനെ കണ്ടെത്തും എന്നതാണ് ഇതോടെ കാന്തിക കപ്പിൾഡ് സർക്യൂട്ടിനെക്കുറിച്ച് ചർച്ച ചെയ്ത ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കാം അടുത്ത സെഷനിൽ കാന്തികമായി കപ്പിൾഡ് സർക്യൂട്ടുകളെക്കുറിച്ചുള്ള ചർച്ച നമ്മൾ തുടരും അവിടെ കാന്തിക കപ്പിൾഡ് സർക്യൂട്ടിൽ സംഭരിച്ചിരിക്കുന്ന ഊർജ്ജത്തെക്കുറിച്ചും ചർച്ച ചെയ്യും ഐഡിയൽ ട്രാൻസ്ഫോർമറും അതിന്റെ വിവിധ സമവാക്യങ്ങളും നിങ്ങൾക്ക് കാണാം